ഇപ്പോൾ ഇൻഡക്ടറുകളുള്ള ഒരു സർക്യൂട്ടിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം ഇൻഡക്ടർ കറന്റ് തൽക്ഷണ മാറ്റങ്ങൾക്ക് വിധേയമാകും

നമുക്ക് ഒരു കറന്റ് Is ഉണ്ടെന്ന് കരുതുക മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഒരു സ്വിച്ചിംഗ് ആക്ഷൻ ഉണ്ടെങ്കിൽ കറന്റ്ൻറെ മൂല്യങ്ങൾ വോൾട്ടേജു മൂല്യങ്ങൾക്കു തുല്യമാണ് ഈ സ്വിച്ച് തുടക്കത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയട്ടെ അത് t 0 ന് തുല്യമായ സർക്യൂട്ടുകൾ തുറക്കുന്നു നമുക്ക് ആദ്യം ഈ രണ്ട് ഇൻഡക്ടറുകൾ ഉണ്ടെന്ന് പറയട്ടെ ആദ്യം സർക്യൂട്ടിന്റെ ക്രമം നിർണ്ണയിക്കും അത് ഉടൻ വരും ഇവിടെ t0 ആകുന്നതിനു മുൻപുള്ള സമയം ഈ സ്വിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകുകയും ഈ കറന്റ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് വഴി ഒഴുകുകയും ചെയ്യുന്നു ആ അവസ്ഥയിൽ നമുക്ക് ഫലപ്രദമായി ഉള്ളത് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ആണ് t 0 ന് തുല്യമായ ശേഷം കറന്റ് സോഴ്സ് ഈ രണ്ടു പാരലൽ ശാഖകളെ ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്നു ഇതിനെ നമുക്ക് Is എന്ന് വിളിക്കാം അടിസ്ഥാനപരമായി ഈ പ്രത്യേക സർക്യൂട്ട് പരിഹരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കാരണം t 0 നേക്കാൾ കൂടുതലാകുന്ന കേസുകളിൽ നമുക്ക് ഇതിന്റെ ഉത്തരം ലഭിക്കണമെന്നില്ല ചില പ്രാരംഭ സാഹചര്യങ്ങളിൽ L1 L2 R എന്നിവയുടെ ചില മൂല്യങ്ങൾ t 0 ന് ആയിരിക്കും തന്നിട്ടുണ്ടാവുക സ്റ്റെപ് കറന്റ് ഇൻപുട്ട് നൽകുന്നതിന് മുൻപ് L1 L2 എന്നീ ഇണ്ടക്ടറുകളിലൂടെയുള്ള കറന്റ് 0 ആയി നമുക്ക് സങ്കല്പിക്കാം സ്വിച്ച് ഓപ്പൺ ചെയുക എന്നാൽ സർക്യുട്ടിലേക്കു സ്റ്റെപ് ഇൻപുട്ട് കറന്റ് കൊടുക്കുന്നു എന്നാണർത്ഥം ഇവിടെ സർക്യൂട്ടിന്റെ ക്രമം എന്താണ് കറന്റ് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുള്ള സോഴ്സ് ഫ്രീ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ ലൂപ്പ് R1 R2 L1 L2 ഉണ്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇണ്ടക്ടറുകൾ രണ്ടും സീരീസ് കണക്ഷനിൽ ആണ് അതെ പോലെ ഈ രണ്ടു റെസിസ്റ്ററുകളും സീരീസ് കണക്ഷനിൽ ആണ് ഉള്ളത് അതിനാൽ ഞങ്ങൾക്ക് L1 L2 ന്റെ ഒരൊറ്റ ഇൻഡക്റ്റർ ഉണ്ട് അതിനു കുറുകെ R1 R 2 ന്റെ ഒരു സിംഗിൾ റെസിസ്റ്റർ ഉണ്ട് ഒരു സർക്യൂട്ടിൽ ഒരൊറ്റ ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അത് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ആയിരിക്കും ഇങ്ങിനെയുള്ള ഒരു സർക്യുട്ടിന്റെ ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്നാൽ അതിലുള്ള ഇണ്ടക്ടർസ്ന്റെ വാല്യൂ ഭാഗം റെസിസ്റ്റർസ്ന്റെ വാല്യൂ ആയിരിക്കും അതായതു ടൈം കോൺസ്റ്റന്റ് എന്നാൽ L1 L2 R1 R2 ന് തുല്യമാണ് അതിനാൽ ടൈം കോൺസ്റ്റന്റ് കണക്കാക്കുന്ന രീതി ഇതാണ് ഈ സർക്യൂട്ട് പകർത്തി ഡിഫറെൻസ് സമവാക്യം എഴുത്തുകയാണെങ്കിൽ I1 എന്ന വേരിയബിൾ കറന്റ് L1 എന്നു ഇണ്ടക്ടറിൽ കൂടി ഒഴുകുന്നു എന്ന് കാണാം ഈ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ L2 ൽ കൂടി ഒഴുകുന്ന കറന്റ് എന്നാൽ Is I1 ആയിരിക്കും ഈ ബ്രാഞ്ചെസിൽ എല്ലാം പാരലൽ ആയിരിക്കും L 1 R 1 എന്നിവ L 2 R 2 എന്നിവയ്ക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ ശാഖയിലെയും ആ ശാഖയിലെയും വോൾട്ടേജ് ഒന്നുതന്നെയാണ് അതാണ് ഞാൻ എഴുതാൻ പോകുന്ന സമവാക്യം ഇത് ഏതു രീതിയിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് ഈ 2 1 ന് ചുറ്റും KVL എഴുതാം ഇപ്പോൾ L1 R1 എന്നിവയ്ക്ക് കുറുകെയുള്ള വോൾട്ടേജ് L1 ടൈം ഡെറിവേറ്റീവ് I1 R1 × I1 ആയിരിക്കും അത് കൃത്യമായി L2 ലൂടെയുള്ള കറന്റിന്റെ ടൈം ഡെറിവേറ്റീവിനു തുല്യമാണ് അതായത് Is I1 R2 × കറന്റ് അതായത് Is I1 ആയിരിക്കും അതിനാൽ I1 എന്ന വേരിയബിൾ അടങ്ങിയ എല്ലാ പദങ്ങളും ഞാൻ ഇടത് വശത്തേക്ക് ഗ്രൂപ്പു ചെയ്യുകയാണെങ്കിൽ വലത് വശത്ത് ബാക്കിയാവുന്നത് ഇവയൊക്കെ ആയിരിക്കും അങ്ങനെ ഇടത് വശത്ത് 0 എന്ന പദത്തിന്റെ ഡെറിവേറ്റീവ് ഇല്ലാത്ത പദം ഒരു യൂണിറ്റിയുടെ ഗുണകമാണ് അതിനാൽ ഇത് എന്നെ ടൈം കോൺസ്റ്റന്റ് കണ്ടു പിടിക്കാൻ സഹായിക്കുന്നു ഞാൻ എല്ലാ പദങ്ങളും R 1 R 2 വെച്ച് ഭാഗിച്ചു ഇതാണ് നമുക്ക് ലഭിക്കുന്ന ടൈം കോൺസ്റ്റന്റ് ഈ സമവാക്യം മറ്റ് പല കാര്യങ്ങളും നമ്മോട് പറയുന്നു t0 ആകുന്ന അവസ്ഥയിൽ സ്റ്റെപ് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സർക്യുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും അത് 0 ൽ നിന്ന് മറ്റൊരു വാല്യൂവിലേക്കു മാറുന്നു അതിനെ ഞാൻ I0 എന്ന് വിളിക്കട്ടെ നമ്മൾ Is നെ ഒരു ടൈം ഫങ്ക്ഷന് ആയി കണക്കാക്കുകയാണെങ്കിൽ അത് 0 ൽ നിന്ന് I0 ലേക്ക് മാറുന്നു t0 ആകുന്ന സമയം Is ന്റെ ഡെറിവേറ്റീവ് ഒരു ഇമ്പൾസ് ആയിരിക്കും എന്നാൽ നമ്മൾ ഇമ്പൾസിനെ കാൽക്കുലേഷൻസിൽ ഉൾപെടുത്തുന്നില്ല അങ്ങനെ ചെയ്യേണ്ടതില്ല Is ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു ഇമ്പൾസ് ആണെന്ന വസ്തുത ഒന്ന് അറിയാനായിട്ടാണ് അതായതു Is ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ആണ് ഇത് ഈ I1 നും ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കണം കാരണം I1 ന്റെ മൂല്യം എല്ലായിടത്തും പരിമിതമായിരിക്കും ഇടതു വശത്തു ഫൈനൈറ്റ് വാല്യൂസ് വെച്ച് വലതു വശത്തു നമുക്ക് ഒരിക്കലും ഒരു ഇമ്പൾസ് ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനാൽ ഈ സമവാക്യത്തിനുള്ള ഒരേയൊരു മാർഗ്ഗം ഒരു സ്റ്റെപ്പ് വേണം എന്നതാണ് അതായത് I1 ഫസ്റ്റ് ഡെറിവേറ്റീവ് dI1 dt ഒരു ഇമ്പൾസ് ആണ് ഈ രണ്ടു ഭാഗങ്ങളും ബാലൻസ്ഡ് ആയിരിക്കണം ഫൈനൈറ്റ് ആയ ഈ ഭാഗം സ്റ്റെപ്പിന്റെ മാത്രയിൽ ഉള്ള ഫൈനൈറ്റ് ആ ഭാഗത്തെ ബാലൻസ് ചെയ്യും അതിനാൽ സ്റ്റെപ്പിന്റെ ആ ഇൻസ്റ്റന്റിൽ നമുക്ക് L1 L2 R1 R2 × d I1 dt എന്നാൽ L2 R1 R2 d Is dt യോട് തുല്യമായിരിക്കും ഇതിനർത്ഥം സ്റ്റെപ്പിന് പകരം ഞാൻ ഇരുവശവും ടൈം അടിസ്ഥാനമാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതും 0 0 എന്നിവയ്ക്കിടയിൽ തുല്യമായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇവയൊക്കെ I10 I1 Is0 Is എന്നിങ്ങനെ എഴുതാം ഇവിടെ രണ്ട് വശങ്ങളിലും ഒരേ സ്കെയിലിംഗ് ഘടകങ്ങൾ ആണ് ഉണ്ടാവുക ഇത് പറയുന്നത് ഡിനോമിനേറ്ററിലെ R1 R2 ക്യാൻസൽ ചെയ്യപ്പെടാം എന്നാണ് അതിനാൽ സ്റ്റെപ്പിലുടനീളം കറന്റിലെ മാറ്റം ഉണ്ടാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ L2 L1 L2 X ഉറവിട കറന്റിലെ മാറ്റം ഓരോ കപ്പാസിറ്ററുകൾക്കും പ്രത്യേകം ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാളും കപ്പാസിറ്ററുകളുടെ ഒരു സീരീസ് കോമ്പിനേഷനിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ റേഷ്യോ X ഇൻപുട്ട് എന്നാവും ലഭിക്കുന്നത് അതുപോലെ ഇൻഡക്ടറുകളുടെ പാരലൽ കോമ്പിനേഷനിലേക്ക് ഒരു സ്റ്റെപ്പ് കറന്റ് പ്രയോഗിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെയും വലുപ്പം ഇൻഡക്ടറുകളുടെ അനുപാതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കപ്പാസിറ്ററുകളുടെ കാര്യത്തിലെന്നപോലെ സ്റ്റെപ്പ് കൊടുക്കുന്ന മാത്രയിൽ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റഴ്സ്നെ ഒഴിവാക്കാം കാരണം കപ്പാസിറ്ററുകൾ വഴി അനന്തമായ കറന്റ് ഫ്ലോയും റെസിസ്റ്റർസ് വഴി ഫൈനൈറ്റ് കറന്റ് ഫ്ലോയും ഉള്ളുവെങ്കിലും റെസിസ്റ്റർ വഴിയുള്ള ഫ്ലോ കാൽക്കുലേഷൻസിൽ ഒഴിവാക്കാവുന്നതാണ് ഗണിതശാസ്ത്രപരമായി ഇവിടെ ചെയ്തത് അതാണ് ഇടത് വലത് വശങ്ങളെ ഇമ്പൾസുകൾക്കും പരിമിതമായ അളവുകൾക്കും വെവ്വേറെ സന്തുലിതമാക്കാൻ ഞാൻ ശ്രമിക്കും ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററുകൾക്ക് സമാന്തരമായി വരുന്ന റെസിസ്റ്ററുകളെ അവഗണിച്ചതുപോലെ ഇൻഡക്ടറുകളുമായി സീരീസ് ആയി വരുന്ന റെസിസ്റ്ററുകളും നമുക്ക് അവഗണിക്കാം അതിനാൽ സ്റ്റെപ്പുകളുടെ കണക്കുകൂട്ടലിനായി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന R1 R2 എന്നിവ KCL എഴുതുമ്പോൾ അവഗണിക്കപ്പെടുന്നു അതിനർത്ഥം വോൾട്ടേജ് 0 ആയി കുറയുന്നു എന്നാണ് അതായത് അവ ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം ഇൻഡക്ടറിലുടനീളം ഒരു സ്റ്റെപ്പ് മാറ്റവും ഇൻഡക്റ്റർ കറന്റും അനന്തമായ വലിയ വോൾട്ടേജും ഉണ്ടെങ്കിൽ ഇത് റെസിസ്റ്ററിലുടനീളമുള്ള പരിമിതമായ വോൾട്ടേജാണ് കപ്പാസിറ്റർ കറന്റ് അനന്തമായിരുന്ന സമയം റെസിസ്റ്റർ കറന്റ്സ് അവഗണിച്ച പോലെ ഇവിടെയും നമുക്ക് ചെയ്യാം

ഇവിടെ L1 ഉം L2 ഉം Is ഉം ഉണ്ട് ഇൻഡക്ടറുകളുടെ വിപരീത അനുപാതത്തിൽ ആണ് കറന്റ് വിഭജനം നടക്കുന്നത് അതിനാൽ L1 വഴി നമുക്ക് Is × L2 L1 L2 ഉം L2 വഴി നമുക്ക് Is × L1 L1 L2 ആയിരിക്കും കപ്പാസിറ്ററുകളുടെ ഒരു സീരീസ് കോമ്പിനേഷനിൽ R ന്റെ വാല്യൂ ഇന്റർമീഡിയറ്റ് പ്ലേറ്റിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല ടോട്ടൽ ചാർജ് ഇവിടെയും അതേപടി നിലനിൽക്കണം അതേ പോലെ ഇൻഡക്റ്ററുകളിൽ ഒരേ ഫ്ലക്സ് തന്നെ ആയിരിക്കണം എപ്പോഴും ഈ കണക്കുകൂട്ടലുകളെല്ലാം വിലമതിക്കുന്നുവെന്ന് ഓർക്കുക സ്റ്റെപ്പ് കൊടുക്കുന്നതിനു പിന്നാലെ തന്നെ ഇണ്ടക്ടർ കറന്റ് കണക്കാക്കുക അത് കഴിഞ്ഞു റെസിസ്റ്റർ വോൾടേജ്സും കണക്കാക്കുക അതിനാൽ I1 L1 ലൂടെ 0 ആയപ്പോളുള്ള കറന്റും I2 L2 ലൂടെ 0 ആയപ്പോളുള്ള കറന്റും ആണെന്നിരിക്കട്ടെ കറന്റ് ആപ്ലിക്കേഷനു ശേഷം ഇത് L2 L1 L2 × Is ഉം I20 എന്നത് L1 L1 L2 × Is ഉം ആണ് ഇവയിൽ നിന്നും ഒരു ഇൻഡക്റ്റർ സർക്യൂട്ടിലെ അന്തിമ മൂല്യങ്ങൾ വളരെ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും ഒരു ഇൻഡക്റ്ററിലുടനീളമുള്ള വോൾട്ടേജില്ല അത് പൂജ്യമാണ് ഇൻഡക്റ്റർ കറന്റും സ്ഥിരമായിരിക്കണം ഇൻഡക്റ്റർ കറന്റ് സ്ഥിരമാണെങ്കിൽ അതിലൂടെയുള്ള വോൾട്ടേജ് അതായത് കറന്റിന്റെ ടൈം ഡെറിവേറ്റീവും 0 ആയിരിക്കും അതിനർത്ഥം നിങ്ങൾക്ക് നിരന്തരമായ ഇൻപുട്ടുകൾ ഉള്ളപ്പോൾ എല്ലാ ഇൻഡക്ടറുകളും അന്തിമ മൂല്യ കണക്കുകൂട്ടലുകൾക്കായി ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് Is ഉണ്ട് L1 ഉം L2 ഉം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് R1 ഉം R2 ഉം ഉണ്ട് അതിനാൽ ഇത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് അതിനാൽ അവസാന മൂല്യങ്ങൾ Is × R2 R1 R2 ആണെന്ന് ഞങ്ങൾക്കറിയാം അതേ പോലെ Is R1 R1R2 ആയിരിക്കും ടൈം കോൺസ്റ്റന്റും നമുക്ക് അറിയാം ഇതിൽ നിന്ന് നമുക്ക് ഫൈനൽ വാല്യൂ കണ്ടു പിടിക്കാവുന്നതാണ് അതിനാൽ I1∞ എന്നാൽ Is × R2 R1 R2 ന്നും I2∞ എന്നാൽ Is R1 R1R2 ഉം ആയിരിക്കും ഇവയിൽ നിന്നും ടൈം കോൺസ്റ്റന്റിൽ നിന്നും നമുക്ക് I1 I2 എന്നിവയുടെ ഫംഗ്ഷനുകൾ എഴുതാം പ്രാരംഭ നിബന്ധനകൾ അനുമാനിച്ചു I1 എന്നാൽ I1∞ I10 x e t𝜏 ആണ് ഇത് ഏതൊരു ഫസ്റ്റ് ഓർഡർ സർക്യുട്ടിന്റെയും ജനറൽ ഫോം ആണ് I1∞ എന്നാൽ R2 R1 R2 ന്നും I10 എന്നാൽ L1 L1L2 x Is ഉം ആയിരിക്കും I1∞ R2R1R2 Is e t𝜏 ന്നും 𝜏 എന്നാൽ L1 L2 R1 R2 ആണ് I2 പൊതുവായ രൂപം I2∞ യുടെ അതേ ഫോം ആയിരിക്കും I2 എന്നാൽ I2∞I20 I1∞ x e t 𝜏 ആണ് അതിനെ നമുക്ക് R1 R1 R2 × Is L1 L1L2 × Is R1 R1R2 × Ise t 𝜏എന്നും എഴുതാം നമുക്ക് സംഖ്യാ മൂല്യങ്ങളുണ്ടെങ്കിൽ ഇവയ്ക്ക് പകരം വയ്ക്കാം കൂടാതെ 0 അല്ലാത്ത പ്രാരംഭ വ്യവസ്ഥകൾ നമുക്ക് സ്റ്റെപ്പ് പ്രയോഗിക്കുന്നതിന് തൊട്ടുമുമ്പ് അനുമാനിക്കാം നമ്മൾ ചെയ്യേണ്ടത് I1 ന് ശരിയായ മൂല്യങ്ങൾ സബ്സ്റ്റിട്യൂട് ചെയ്യുക അവിടെ നിന്ന് നമുക്ക് എല്ലാം കണക്കാക്കാം ഇണ്ടക്ടർ കറന്റ്നു സ്റ്റെപ്പ് ചേഞ്ച് ഉള്ളപ്പോൾ ഒരു സർക്യൂട്ടിലെ മറ്റേതെങ്കിലും അളവിനായുള്ള കറന്റ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസിലാക്കാം